ഈ പ്രഭാഷണത്തിൽ ആൽബ്രെക്റ്റ് ഫങ്ക്ഷൻ പോയിൻറ് രീതികൾക്കായി ചില ഉദാഹരണങ്ങൾ എടുക്കാം അതിനാൽ നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും ഈ ആൽബ്രെക്റ്റ് ഐഎഫ്പിയുജി ഫംഗ്ഷൻ പോയിന്റുകളിൽ Albrecht IFPUG function point കൂടുതൽ ഉദാഹരണങ്ങൾ കാണാം സൈമൺസ് മാർക്ക് II ഫംഗ്ഷൻ പോയിന്റും Symons Mark II function point കോസ്മിക് ഫംഗ്ഷൻ പോയിന്റുകളുമായ രണ്ട് തരം ഫംഗ്ഷൻ പോയിൻറുകൾ നമുക്ക് നോക്കാം വലുപ്പത്തിനായുള്ള ഈ പാരാമെട്രിക് മോഡലുകളെക്കുറിച്ച് നമ്മൾ ഇതിനകം ചർച്ചചെയ്തിട്ടുണ്ട് അവസാന ക്ലാസ്സിൽ ഇത് ഉപയോഗിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ 4 തരം ഐഎഫ്പിയുജി ഫംഗ്ഷൻ പോയിന്റുകൾ കാണും മാർക്ക് II ഫംഗ്ഷൻ പോയിന്റുകൾ കോസ്മിക് ഫംഗ്ഷൻ പോയിന്റുകൾ കൊക്കോമോ 81 കൂടാതെ കൊക്കോമോ II എന്നിവ കണക്കാക്കുന്നു അവസാന ക്ലാസ്സിൽ ഐഎഫ്പിയുജി ഫംഗ്ഷൻ പോയിന്റുകൾ ചർച്ചചെയ്തു ഇപ്പോൾ ഈ സൈമൺസ് മാർക്ക് II ഫംഗ്ഷൻ പോയിന്റും Symons Mark II function point കോസ്മിക് ഫംഗ്ഷൻ പോയിന്റുകളും നമ്മൾ ചർച്ച ചെയ്യും അതിലേക്ക് പോകുന്നതിനുമുമ്പ് ഈഐഎഫ്പിയുജി ഫംഗ്ഷൻ പോയിന്റുകളെ കുറിച്ച് ഒന്നോ രണ്ടോ പ്രശ്നങ്ങൾ ഉദാഹരണങ്ങൾ കൂടി എടുക്കാം നമുക്ക് ഈ ഉദാഹരണം കാണാം ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഈ മുമ്പത്തെ ഫോർമുല ആദ്യം നമ്മൾ ക്രമീകരിക്കാത്ത ഫംഗ്ഷൻ പോയിന്റ് കണ്ടെത്തണം തുടർന്ന് മൂല്യ ക്രമീകരണ ഘടകം ഉപയോഗിച്ച് അത് പരിഷ്കരിക്കേണ്ടതുണ്ട് അതിനാൽ ക്രമീകരിക്കാത്ത ഫംഗ്ഷൻ പോയിന്റിനായുള്ള ഈ സമവാക്യം എന്തായി എഴുതാം അവസാന സ്ലൈഡുകളിൽ ഇത് തന്നിരിക്കുന്ന തരത്തിലുള്ള മൂലകങ്ങളുടെ സംഗ്രഹത്തിന് തുല്യമായിരിക്കും ഇത് ഒരു ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു ചോദ്യമായിരിക്കാം ഘടകങ്ങളുടെ എണ്ണം ഗുണിതം ഭാരം എന്താണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഭാരം മൂന്ന് ആകാം 3 ഭാരം ലളിതമോ ഇടത്തരമോ ഉയർന്നതോ ആണോ എന്നതിനെ ആശ്രയിച്ച് മൂന്ന് വിഭാഗങ്ങളായി തിരിക്കാം നിങ്ങൾക്ക് നൽകിയ മൾട്ടിപ്ലയറുകളെ സങ്കീർണ്ണത വർഗ്ഗീകരിക്കാൻ ആ പട്ടിക ആൽബ്രെക്റ്റ് സഹായിക്കും ഇപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് ഈ പ്രശ്നം ശരിയാക്കാം ഇതിനായി നമുക്ക് ഒരു ഉദാഹരണം കൂടി നോക്കാം ഇനിപ്പറയുന്ന ഫംഗ്ഷണൽ യൂണിറ്റുകളുള്ള ഒരു പ്രോജക്റ്റ് പരിഗണിക്കുക ഈ പ്രോജക്റ്റിൽ 50 ഉപയോക്തൃ ഇൻപുട്ടുകൾ 40 ഉപയോക്തൃ ഔട്ട്പുട്ടുകൾ 35 ഉപയോക്തൃ അന്വേഷണങ്ങൾ 6 ഉപയോക്തൃ ഫയലുകൾ 4 ബാഹ്യ ഇന്റർഫേസുകൾ എന്നിവ ഉണ്ടെന്ന് കരുതുക അതിനാൽ സങ്കീർണ്ണത ക്രമീകരണ ഘടകങ്ങളും ഭാരോദ്വഹന ഘടകങ്ങളും ശരാശരി ആണെന്ന് കരുതുക എല്ലാം ശരാശരിയാണ് പ്രോജക്റ്റിനായുള്ള ഫംഗ്ഷൻ പോയിന്റുകൾ കണക്കുകൂട്ടി വലുപ്പം എത്രയാണെന്ന് കണക്കുകൂട്ടുക എന്നതാണ് ചോദ്യം ഓരോ ഫംഗ്ഷൻ പോയിന്റിനും പ്രോഗ്രാമിന് 70 എൽഓസി ആവശ്യമാണ് ഇപ്പോൾ ഇൻപുട്ടുകൾ 50 ന് തുല്യവും ഔട്ട്പുട്ടുകൾ 40 ഉം ചോദ്യങ്ങൾ 35 ഉം ആന്തരിക ഫയലുകളുടെ എണ്ണം 6 ഉം ബാഹ്യ ഇന്റർഫേസുകളും 4 ഉം ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫോർമുലയിൽ ഈ മൂല്യങ്ങൾ ഉപയോഗിക്കുക അത് യുഎഫ്പിയുടെ ഈ മൂല്യങ്ങൾ നൽകും അടിസ്ഥാനപരമായി രണ്ട് കാര്യങ്ങൾ ആണുള്ളത് ഓരോ വിഭാഗത്തിലും നിന്നുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് അന്വേഷണം ആന്തരിക ഫയൽ ബാഹ്യ ഇന്റർഫേസുകൾ എന്നിവയിൽ നിന്ന് സാധ്യമായ എണ്ണം ഘടകങ്ങൾ ഭാരം കൊണ്ട് ഗുണിച്ചാൽ അത് വ്യത്യാസപ്പെടുമോ എന്നതാണ് ഇത് ലളിതമോ ശരാശരിയോ ഉയർന്നതോ ആണോ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഇതിന്റെ എല്ലാം ശരാശരി എന്താണെന്ന് മുൻപത്തെ പ്രശ്നത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിനാൽ എല്ലാ സങ്കീർണ്ണത ക്രമീകരണ ഘടകങ്ങളും ശരാശരിയാണ് അതുപോലെ തന്നെ ഈ ഭാരോദ്വഹന ഘടകങ്ങളും ശരാശരിയാണ് ഇത് കണക്കുകൂട്ടാൻ വളരെ എളുപ്പമായിരിക്കും ഇപ്പോൾ യുഎഫ്പി സംസ്ഥാന ഫോർമുലക്ക് തുല്യമാണ് ഇത് പ്രയോഗിക്കുക അപ്പോൾ നിങ്ങൾക്ക് 628 ലഭിക്കും തുടർന്ന് മൂല്യ ക്രമീകരണ ഘടകമാണ് കണ്ടെത്തേണ്ടത് ആ ഫോർമുല വീണ്ടും 0 65 പ്ലസ് ടിഡിഐ ഗുണിതം 0 01 അവിടെ ടിഡിഐ മൊത്തം സ്വാധീന ഡിഗ്രിക്ക് തുല്യമാണ് ഇവിടെ നിന്ന് 14 പാരാമീറ്ററുകൾ ഇത് ശരാശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സങ്കീർണ്ണത ക്രമീകരണ ഘടകങ്ങൾ ശരാശരിയാണെന്ന് ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ജിഎസ്സി ഈ ജനറൽ സിസ്റ്റം സ്വഭാവഗുണങ്ങളെ അർത്ഥമാക്കുന്ന വെയ്റ്റിംഗ് ഘടകങ്ങളും ഇവയും ശരാശരിയാണ് ശരാശരി 0 മുതൽ 5 വരെ നിങ്ങൾ ഒരു സ്കെയിൽ എടുക്കുന്നതിനാൽ ഇത് വീണ്ടും ശരാശരി 3 വരും ഇത് 1 07 ആയിരിക്കും അതിനാൽ എഎഫ്പി ക്രമീകരിച്ച ഫംഗ്ഷൻ പോയിന്റുകൾ വിഎഎഫിലേക്ക് ക്രമീകരിക്കാത്ത ഫംഗ്ഷൻ പോയിൻറുകൾക്ക് തുല്യമായിരിക്കും എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അത് പരിഷ്കരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ മൂല്യം ക്രമീകരണ ഘടകത്തിൽ ക്രമീകരിക്കാത്ത ഫംഗ്ഷൻ പോയിന്റിനെ ഗുണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്രമീകരണ ഫംഗ്ഷൻ പോയിന്റ് ലഭിക്കും ഇത് 672 ന് നൽകിയിരിക്കുന്നു ഇത് ക്രമീകരിച്ച ഫംഗ്ഷൻ പോയിന്റുകളാണ് ഇപ്പോൾ രണ്ടാം ഭാഗത്തിന്റെ ചോദ്യം പൂർണ്ണ പ്രോജക്റ്റിന്റെ വലുപ്പം കണ്ടെത്തുക ഫയൽ എങ്ങനെ കണക്കുകൂട്ടാം നിങ്ങൾ ഈ വിവരങ്ങൾ ഉപയോഗിക്കണം ഇത് പ്രോഗ്രാം പ്രവർത്തനം പോയിന്റ് 70 എൽ സി ആവശ്യമാണ് അതായത് ഓരോ ഫംഗ്ഷൻ പോയിന്റിനും 70 വരികളുള്ള കോഡ് ആകാം കോഡിന്റെ ആകെ വരികളുടെ എണ്ണം എന്താണ് ക്ഷമിക്കണം മൊത്തം എഫ്പി ഫംഗ്ഷൻ പോയിൻറ് 672 എത്രയാണ് അതിനാൽ മൊത്തം വലുപ്പം ഓരോ ഫംഗ്ഷൻ പോയിന്റുകൾക്കും എൽഒസിയിലേക്ക് ഫംഗ്ഷൻ പോയിന്റുകൾക്ക് തുല്യമായിരിക്കും അതിനാൽ 672 മുതൽ 70 വരെ ഈ രീതിയിൽ എൽഒസിയുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ ഈ മൊത്തം വലുപ്പം 47040 ആയിരിക്കുമെന്ന് ലഭിക്കും ചെറിയ പ്രോജക്റ്റുകൾക്കായി ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ ഫോർമുല എളുപ്പത്തിൽ ഉപയോഗിക്കാം ഫംഗ്ഷൻ പോയിന്റുകളും വലുപ്പവും കണ്ടെത്തുക പരീക്ഷയിൽ ഈ തരത്തിലുള്ള ചില ചെറിയ ചോദ്യങ്ങൾ ചോദിച്ചേക്കാം നിങ്ങൾ ഉത്തരം കണ്ടെത്തണം മറ്റൊരു ഉദാഹരണം എടുക്കാം നിങ്ങൾ വികസിപ്പിച്ചെടുക്കേണ്ട ഒരു പ്രോജക്റ്റ് ആ പ്രോജക്റ്റിന്റെ ഫംഗ്ഷൻ പോയിന്റ് നിങ്ങൾ കണ്ടെത്തണം ഈ പ്രോജക്റ്റിന് ഇനിപ്പറയുന്ന സവിശേഷതകൾ ഉണ്ട് ഉപയോക്തൃ ഇൻപുട്ടിന്റെ എണ്ണം 30 ആണ് ഉപയോക്തൃ ഔട്ട്പുട്ടുകളുടെ എണ്ണം 60 ആണ് ഉപയോക്തൃ അന്വേഷണങ്ങളുടെ എണ്ണം 24 ഫയലുകളുടെ എണ്ണം 8 ന് തുല്യവും ബാഹ്യ ഇന്റർഫേസിന്റെ എണ്ണം 2 ഉം ആണ് എല്ലാ സങ്കീർണ്ണത ക്രമീകരണ മൂല്യവും ശരാശരിയാണെന്നും എല്ലാ ഭാരോദ്വഹന ഘടകങ്ങളും ശരാശരിയാണെന്നും കരുതുക നിങ്ങൾ ഫംഗ്ഷൻ പോയിന്റുകളുടെ എണ്ണം കണ്ടെത്തണം ഓരോ തരത്തിലുമുള്ള മൂലകങ്ങളുടെ എണ്ണം തൂക്കത്തിലേക്ക് നൽകിയിട്ടുള്ള യുഎഫ്പി വീണ്ടും നേരെ ഫോർമുല കാണാൻ കഴിയും മൊത്തത്തിൽ ഈ സമവാക്യം പ്രയോഗിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന മൊത്തത്തിലുള്ള സംഗ്രഹം എടുക്കുക ഇൻപുട്ട് ഉപയോക്താക്കളിൽ 32 എണ്ണം ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ശരാശരി മൂല്യം ഇതിന്റെ 4 ആണെന്ന് നിങ്ങൾക്കറിയാം ഇത് ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട് ക്രമീകരണ ഘടകങ്ങൾ ശരാശരിയാണ് അതിനാൽ മൂല്യം 32 മുതൽ 4 വരെ ആയിരിക്കും അതുപോലെ ഔട്ട്പുട്ട് 60 ഉം ശരാശരി ഭാരം 5 ഉം അന്വേഷണങ്ങൾ 24 എണ്ണം കൂടാതെ അന്വേഷണത്തിനുള്ള ഈ ശരാശരി മൂല്യം 4 ആണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾക്ക് എന്ത് ആന്തരിക ഫയലുകളുടെ 8 അക്കങ്ങളും ബാഹ്യ ഇന്റർഫേസുകൾ 2 ആണെന്നും കണക്കുകൂട്ടാൻ കഴിയും ബാഹ്യ ഇന്റർഫേസുകളുടെ എണ്ണം 10 2 അക്കങ്ങളുടെ ശരാശരി മൂല്യത്തിലേക്ക് 8 ശരാശരി മൂല്യം 7 ആണ് അതിനാൽ ഇത് 618 വരുന്നുവെന്ന് കണ്ടെത്തുക തുടർന്ന് 0 65 പ്ലസ് 0 01 സമവാക്യം ഉപയോഗിച്ച് നിങ്ങൾ മൂല്യ ക്രമീകരണ ഘടകം കണക്കാക്കണം ടിഡിഐയിലേക്കും അതിനുശേഷം ഇവയും ശരാശരി സിസ്റ്റം സവിശേഷതകളാണ് 14 മുതൽ 3 വരെ അങ്ങനെ 1 07 ആയിരിക്കും അവസാനമായി ക്രമീകരിക്കാത്ത ഫംഗ്ഷൻ പോയിന്റുകളും മൂല്യം ക്രമീകരണ ഘടകവും ഗുണിച്ചുകൊണ്ട് ക്രമീകരിച്ച ഫംഗ്ഷൻ പോയിന്റ് ലഭിക്കും ഇത് 661 26 ആയിരിക്കും ഈ പ്രോജക്റ്റിനായി ക്രമീകരിച്ച ഫംഗ്ഷൻ പോയിന്റുകളുടെ ആകെ എണ്ണം അല്ലെങ്കിൽ ക്രമീകരിച്ച ഫംഗ്ഷൻ പോയിന്റ് എണ്ണങ്ങൾ 661 26 ആയി തുല്യമായിരിക്കും ഫംഗ്ഷൻ പോയിന്റിനായി നിങ്ങൾ 80 വരികൾ കോഡ് എഴുതണം എന്ന് കരുതുക അപ്പോൾ എൽഒസിയുടെ വലുപ്പമെന്താണ് 26 ഉം 80 ഉം ഇത് നിങ്ങൾക്ക് നിർദ്ദിഷ്ട പ്രോജക്റ്റിന്റെ വലുപ്പം നൽകും അതിനാൽ തന്നിരിക്കുന്ന പ്രോജക്റ്റിന്റെ വലുപ്പം കണക്കാക്കാൻ ഈ രീതിയിൽ നിങ്ങൾക്ക് ആൽബ്രെക്റ്റ് ഫംഗ്ഷൻ പോയിന്റ് രീതി ഉപയോഗിക്കാം ഇപ്പോൾ ഇവയെക്കുറിച്ച് നമുക്ക് വേഗത്തിൽ പറയാം മാർക്ക് II ഇത് ഫംഗ്ഷൻ പോയിന്റുകൾ കണ്ടെത്താനുള്ള മറ്റൊരു രസകരമായ സമീപനമാണ് ഇത് വികസിപ്പിച്ചെടുത്തത് ചാൾസ് ആർ സൈമൺസ് ആണ് യഥാർത്ഥത്തിൽ ഓരോ രീതിയുടെയും വിശദാംശങ്ങൾ അദ്ദേഹം വികസിപ്പിച്ചെടുത്ത ഒരു പുസ്തകത്തിൽ ലഭ്യമാണ് സോഫ്റ്റ്വെയർ വലുപ്പത്തെക്കുറിച്ചും കണക്കാക്കുന്നതിനെക്കുറിച്ചും 1991 ൽ വൈലി ആൻഡ് സൺസ് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു അതിൽ അദ്ദേഹത്തിന്റെ ഫംഗ്ഷൻ പോയിന്റുകളുടെ വിശദാംശങ്ങൾ അടങ്ങിയിരിക്കുന്നു അതായതു ഫംഗ്ഷൻ പോയിന്റുകൾ മാർക്ക് II ഇത് യഥാർത്ഥത്തിൽ ആൽബ്രെക്റ്റ് ഫംഗ്ഷൻ പോയിന്റിന്റെ വിപുലീകരണത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് IFPUG എഫ്പികൾക്ക് സമാന്തരമായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് വളരെ ലളിതവും ഉപയോഗ യോഗ്യവുമായ ഒരു രീതിയാണ് ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു ഓരോ ഇടപാടിനും നിങ്ങൾ ഡാറ്റ ഇനങ്ങളുടെ ഇൻപുട്ട് ഡാറ്റ ഇനങ്ങളുടെ ഔട്ട്പുട്ട് ആക്സസ്സുചെയ്ത എന്റിറ്റി തരങ്ങൾ എന്ന ഈ മൂന്ന് പാരാമീറ്ററുകൾ കണക്കാക്കേണ്ടതുണ്ട് തുടർന്ന് ഒരു ഫോർമുല ഉപയോഗിച്ച് മുഴുവൻ പ്രോജക്റ്റിനുമുള്ള മൊത്തം ഫംഗ്ഷൻ പോയിന്റ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും അത് അടുത്ത സ്ലൈഡിൽ കാണും ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കാണുക നിങ്ങൾ ഇൻപുട്ട് ഇനങ്ങൾ വിതരണം ചെയ്യണം അതുപോലെ തന്നെ മൂന്ന് പാരാമീറ്ററുകളും ആവശ്യമാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് എണ്ണം പ്രോസസ്സിലേക്ക് നൽകിയ ഇൻപുട്ട് ഇനങ്ങളുടെ എണ്ണം ഡാറ്റ സ്റ്റോറിൽ നിന്ന് വിലയിരുത്തിയ എന്റിറ്റികളുടെ എണ്ണം ഔട്ട്പുട്ട് ഇനങ്ങളുടെ എണ്ണം എന്നിവ നിർമ്മിക്കുന്നു ഈ രീതിയിൽ ഫംഗ്ഷൻ പോയിന്റ് മാർക്ക് II പ്രവർത്തിക്കുന്നു ഇത് ആൽബ്രെക്റ്റ് ഫംഗ്ഷൻ പോയിന്റിനേക്കാൾ ലളിതമായ ഒരു രീതിയാണ് ഇത് യുകെയിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു അതിനാൽ മാർക്ക് II ഫംഗ്ഷൻ പോയിന്റ് കണ്ടെത്തുന്നതിനുള്ള അന്തിമ ഫോർമുല എന്താണ് ഫംഗ്ഷൻ എണ്ണം ഇനിപ്പറയുന്ന സമവാക്യം നൽകുന്നു FP എണ്ണം N i 0 58 N e 1 66 N o 0 26 N i ഡാറ്റാ ഇനങ്ങളുടെ ഇൻപുട്ട് എന്നത് ഡാറ്റാ ഇനങ്ങളുടെ ഔട്ട്പുട്ടും N o N e എന്നത് ആക്സസ്സുചെയ്ത ബന്ധപ്പെട്ട എന്റിറ്റി തരങ്ങൾ ഈ മൂല്യ വിധികർത്താവ് ഈ സ്ഥിരതകൾ ചില ഭാരം 0 58 1 66 0 26 ഇവ തൂക്കമാണ് സൈമൺസ് തന്റെ ലാബിൽ പരീക്ഷണങ്ങൾ നടത്തി സ്ഥിരാങ്കങ്ങളുടെ ഈ മൂല്യങ്ങൾ അദ്ദേഹം കണ്ടെത്തി Ni Ne കൂടാതെ No എന്നീ പരാമീറ്ററുകൾക്കൊപ്പം സ്ഥിരാങ്കങ്ങളുടെ ഈ മൂല്യങ്ങൾ അദ്ദേഹം നേരിട്ട് ഉപയോഗിക്കുകയും ഫംഗ്ഷൻ പോയിന്റുകൾ കണ്ടെത്തുന്നതിന് അദ്ദേഹം ഈ ഫോർമുല വികസിപ്പിക്കുകയും ചെയ്തു ഇതിനെ സൈമൺസ് മാർക്ക് II ഫംഗ്ഷൻ പോയിന്റുകൾ എന്ന് വിളിക്കുന്നു ഇത് ആൽബ്രെക്റ്റ് ഫംഗ്ഷൻ പോയിന്റിനേക്കാൾ ലളിതമാണ് ഇപ്പോൾ നമ്മൾ കണ്ട ഈ ഫംഗ്ഷൻ പോയിന്റുകൾ ആൽബ്രെക്റ്റ് ഫംഗ്ഷൻ പോയിന്റുകളും സൈമൺസ് ഫംഗ്ഷൻ പോയിന്റുകളും റിയൽടൈംലേ സിസ്റ്റങ്ങളും ഉൾച്ചേർത്ത സിസ്റ്റങ്ങളിലെക്ക് വികസിപ്പികുവാൻ സാധികുമോ എന്ന് നമുക്ക് നോക്കാം ഈ മാർക്ക് II IFPUG ഫംഗ്ഷൻ പോയിന്റുകൾ കാണുക അവ പ്രധാനമായും വിവര സിസ്റ്റങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തവയാണ് അവ ഉൾച്ചേർത്ത സിസ്റ്റങ്ങൾക്ക് അനുയോജ്യമല്ലാത്തത് എന്തുകൊണ്ട് ഈ രണ്ട് ഫംഗ്ഷൻ പോയിൻറുകൾ ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രവർത്തനങ്ങളിൽ പ്രധാനമായും അല്ലെങ്കിൽ ആധിപത്യം പുലർത്തുന്നതിനാൽ ഇൻപുട്ട് പ്രവർത്തനങ്ങളുടെ എണ്ണത്തിനും ഔട്ട്പുട്ട് പ്രവർത്തനങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നു ഈ പ്രശ്നത്തെ മറികടക്കുന്നതിനായി അവ വികസിപ്പിച്ചെടുതതാണ് കോസ്മിക് ഫുൾ ഫംഗ്ഷൻ പോയിന്റുകൾ ഈ ആശയം ഇവ മാർക്ക് II ആശയം അല്ലെങ്കിൽ IFPUG ആശയം ഉൾച്ചേർത്ത സിസ്റ്റങ്ങളിലേക്ക് ആശയം വിപുലീകരിക്കാൻ നോക്കുന്നു ഉൾച്ചേർത്ത സിസ്റ്റങ്ങളിലോ തത്സമയ സിസ്റ്റങ്ങളിലോ പ്രയോഗിക്കുന്നതിന് ഉൾച്ചേർത്ത സിസ്റ്റങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ഇപ്പോൾ ഈ ആശയങ്ങൾ വിപുലീകരിച്ചു ഉൾച്ചേർത്ത സിസ്റ്റത്തിൽ ഇത് മറഞ്ഞിരിക്കുന്നതുപോലുള്ള സവിശേഷതകളാണെന്നും നിങ്ങൾക്കറിയാം ഒരു ഉൾച്ചേർത്ത സിസ്റ്റത്തിൽ ഇത് സാധാരണയായി സവിശേഷതകൾ മറയ്ക്കും കാരണം സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറിന്റെ ഉപയോക്താവ് ഒരുപക്ഷേ ഒരു മനുഷ്യനല്ല ഇത് ചില ഹാർഡ്വെയർ ഉപകരണമോ മറ്റൊരു സോഫ്റ്റ്വെയർ ഘടകമോ ഉപയോഗിക്കും ഈ പ്രശ്നങ്ങളെ മറികടക്കുന്നതിന് സിസ്റ്റം ആർക്കിടെക്ചറിനെ സോഫ്റ്റ്വെയർ ലെയറുകളുടെ ശ്രേണിയിലേക്ക് വിഘടിപ്പിച്ചുകൊണ്ട് കോസ്മിക്സ് ഇത് കൈകാര്യം ചെയ്യുന്നു എംബഡ് ചെയ്ത സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലെ ഒന്നിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ലെയറിലോ ഉള്ളതായി കാണുന്നു സോഫ്റ്റ്വെയർ ഉള്ള ഈ ലെയർ ഇത് മറ്റ് ലെയറുകളുമായി ആശയവിനിമയം നടത്തുന്നു മുകളിലെ ലെയറുകളും ചുവടെയുള്ള ലെയറുകളും മറ്റ് ഘടകങ്ങളും ഒരേ നിലയിലാണ് വലുപ്പമുള്ള സോഫ്റ്റ്വെയർ ഘടകത്തിന് മുകളിലുള്ള ലെയറുകളിൽ നിന്ന് സേവനങ്ങൾക്കായി അഭ്യർത്ഥനകൾ സ്വീകരിക്കാൻ കഴിയും കൂടാതെ ഇതിന് താഴെയുള്ളവരിൽ നിന്ന് സേവനങ്ങൾ അഭ്യർത്ഥിക്കാൻ കഴിയും ഇത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു ഉയർന്ന ലെയറുകളിൽ നിന്നുള്ള സന്ദേശങ്ങൾ ഇവിടെ ലഭിക്കുമെന്ന് കരുതുക താഴത്തെ ഒരു ലെയറിൽ നിന്ന് ഒരു സേവനത്തിനായി ഇത് ഒരു അഭ്യർത്ഥന നടത്താം കൂടാതെ ഒരു താഴ്ന്ന പാളിയിൽ നിന്ന് എന്ത് സേവനമാണ് ഇതിന് ലഭിക്കുക അത് ചില ഉയർന്ന ലെയറിന് കുറച്ച് സേവനം നൽകാം കൂടാതെ ഈ സോഫ്റ്റ്വെയർ ഘടകം ഒരേ ലെയറിൽ നിലനിൽക്കുന്ന സ്ഥിരമായ സംഭരണം പിയർ ഘടകം മറ്റ് ഘടകങ്ങൾ എന്നിവയുമായി ആശയവിനിമയം നടത്തിയേക്കാം ഇതാണ് ലേയേർഡ് സോഫ്റ്റ്വെയർ ഈ ആശയത്തെ അടിസ്ഥാനമാക്കി ഈ ഉൾച്ചേർത്ത സിസ്റ്റങ്ങൾ പ്രവർത്തിക്കുന്നു അതിനാൽ അവർ ആൽബ്രെക്റ്റ് ഫംഗ്ഷൻ പോയിന്റും സൈമൺസ് ഫംഗ്ഷൻ പോയിന്റുകളും ആയതിനാൽ ഈ ഉൾച്ചേർത്ത സിസ്റ്റങ്ങളെ കൈകാര്യം ചെയ്യാൻ അവർക്ക് കഴിയില്ല അതിനാൽ കോസ്മിക്സ് എന്ന മറ്റൊരു ഫംഗ്ഷൻ പോയിൻറ് സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് കോസ്മിക്സ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കാം ഇവിടെ വലുപ്പമുള്ള സോഫ്റ്റ്വെയർ ഘടകത്തിന് മുകളിലുള്ള ലെയറുകളിൽ നിന്ന് സേവനങ്ങൾക്കായി അഭ്യർത്ഥനകൾ സ്വീകരിക്കാനും അതിന് താഴെയുള്ളവരിൽ നിന്ന് സേവനങ്ങൾ അഭ്യർത്ഥിക്കാനും കഴിയും വിലയിരുത്തേണ്ട സോഫ്റ്റ്വെയർ ഘടകത്തിന്റെ അതിർത്തി എന്താണെന്നും ഇത് ഇൻപുട്ടുകൾ സ്വീകരിക്കുന്നതും ഔട്ട്പുട്ടുകൾ കൈമാറുന്നതുമായ പോയിന്റുകൾ എന്താണെന്ന് ഇത് തിരിച്ചറിയുന്നു ഇത് ഇൻപുട്ടുകൾ ഇവിടെ ഇൻപുട്ടുകളും ഔട്ട്പുട്ടുകളും ഡാറ്റാ ഗ്രൂപ്പുകളായി സമാഹരിക്കപ്പെടുന്നു അവിടെ ഓരോ ഗ്രൂപ്പും ഒരേ താൽപ്പര്യമുള്ള ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഡാറ്റ ഇനങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരും ഇവയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് നോക്കാം ഡാറ്റാ ഗ്രൂപ്പുകൾക്ക് ഇനിപ്പറയുന്ന രീതിയിൽ നാല് തരത്തിൽ സഞ്ചരിക്കാൻ കഴിയും ഒന്ന് എൻട്രി മറ്റൊന്ന് എക്സ്ഇറ്റ് മറ്റൊന്ന് വായിക്കുന്നു മറ്റൊന്ന് എഴുതുന്നു അതിനാൽ ഇതാണ് ഡാറ്റാ ഗ്രൂപ്പുകൾക്ക് നീങ്ങാൻ കഴിയുന്ന നാല് വഴികൾ എൻട്രികൾ എന്നാൽ ഉയർന്ന പാളി അല്ലെങ്കിൽ ഒരു പിയർ ഘടകത്തിൽ നിന്ന് പരിഗണനയിലുള്ള സോഫ്റ്റ്വെയർ ഘടകത്തിലേക്ക് ഡാറ്റ നീക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് എക്സിറ്റ് അർത്ഥമാക്കുന്നത് പരിഗണനയിലുള്ള സോഫ്റ്റ്വെയർ ഘടകത്തിൽ നിന്ന് ഡാറ്റയുടെ ചലനം വായിക്കുക എന്നതിനർത്ഥം സ്ഥിരമായ സംഭരണത്തിൽ നിന്ന് ഡാറ്റാ ചലനം എഴുത്ത് മാർഗങ്ങൾ ഡാറ്റാ നിമിഷം സ്ഥിരമായ സംഭരണം അതിനാൽ ഡാറ്റാ ഗ്രൂപ്പുകൾക്ക് നീങ്ങാൻ കഴിയുന്ന വിധത്തിൽ ഓരോരുത്തരും കണക്കാക്കേണ്ടതെന്താണ് മുകളിൽ പറഞ്ഞവയിൽ ഓരോന്നും ഒരു കോസ്മിക് ഫംഗ്ഷണൽ സൈസ് യൂണിറ്റ് കണക്കാക്കുന്നു ചുരുക്കത്തിൽ സിഎഫ്എസയു എന്ന് വിളിക്കുന്നു ഈ രീതിയിൽ കോസ്മിക് ഫംഗ്ഷൻ പോയിന്റുകൾ ഇതിൽ കണക്കാക്കാം ഏത് ഉൾച്ചേർത്ത സിസ്റ്റത്തിനോ തത്സമയ സിസ്റ്റത്തിനോ കണക്കാക്കാം മൊത്തത്തിലുള്ള പൂർണ്ണ ഫംഗ്ഷൻ പോയിന്റ് എണ്ണം എങ്ങനെ കണ്ടെത്താം അവസാന സ്ലൈഡിൽ നമ്മൾ കണ്ട 4 തരം ഡാറ്റാ മൊമെന്റുകളിൽ ഓരോന്നിനും എണ്ണങ്ങൾ ചേർത്തുകൊണ്ട് എണ്ണം കണക്കാക്കാം ഈ കോസ്മിക് എഫ്എഫ്പികൾ ഐഎസ്ഒ നിലവാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ എൽഒസി മുതലായവ ഏതെങ്കിലും ഐഎസ്ഒ സ്റ്റാൻഡേർഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് ഇതിനകം കണ്ടു പക്ഷേ ഈ കോസ്മിക് എഫ്എഫ്പികൾ അവ ഐഎസ്ഒ നിലവാരത്തിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ കോസ്മിക് എഫ്പികളുടെ ദോഷങ്ങളെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് പറയാം ഡാറ്റാ ഗ്രൂപ്പുകളുടെ ഒരു പ്രോസസ്സിംഗും ഇത് കണക്കിലെടുക്കുന്നില്ല അതിനാൽ അത് എടുക്കുന്നില്ല സോഫ്റ്റ്വെയർ ഘടകത്തിലേക്ക് മാറ്റിയാൽ ഡാറ്റാ ഗ്രൂപ്പുകളുടെ പ്രോസസ്സിംഗ് ഇത് പരിഗണിക്കുന്നില്ല അവർ സോഫ്റ്റ്വെയർ ഘടകത്തിലേക്ക് മാറ്റിയ ഡാറ്റാ ഗ്രൂപ്പുകൾ കഴിഞ്ഞാൽ ഈ മെട്രിക് ഈ മെറ്റീരിയലിനെ പരിപാലിക്കുന്നില്ല ഈ ഡാറ്റ ഗ്രൂപ്പുകളുടെ ഒരു പ്രോസസ്സിംഗും കണക്കിലെടുക്കുന്നില്ല സങ്കീർണ്ണമായ ഗണിത അൽഗോരിതം ഉൾക്കൊള്ളുന്ന സിസ്റ്റങ്ങളിൽ സാധാരണയായി ഇത് ഉപയോഗിക്കാൻ ശുപാർശ ചെയ്യുന്നില്ല ഈ സിസ്റ്റത്തിനായി ഇത് ശുപാർശ ചെയ്യുന്നില്ല അതിനാൽ ഇവ കോസ്മിക് ഫംഗ്ഷൻ പോയിന്റുകളുടെ പ്രധാന പോരായ്മകളാണ് ഫംഗ്ഷൻ പോയിന്റുകളുടെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നമുക്ക് സംഗ്രഹിക്കാം പോസിറ്റീവ് വശത്ത് നിങ്ങൾക്ക് ഫംഗ്ഷൻ പോയിന്റ് ഭാഷ സ്വതന്ത്രമാണെന്ന് പറയാൻ കഴിയും എൽഒസി ഒരു ഭാഷയെ ആശ്രയിച്ചുള്ളതാണെന്ന് കണ്ടു പക്ഷേ ഫംഗ്ഷൻ പോയിന്റുകൾ ഭാഷ സ്വതന്ത്രമാണ് ക്ലയന്റിന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ കാരണം ഇവിടെ സാങ്കേതിക വിശദാംശങ്ങളൊന്നുമില്ല പ്രവർത്തനക്ഷമത അവ നിങ്ങൾ വിശകലനം ചെയ്യുന്ന അനുബന്ധ കാര്യങ്ങളാണ് അതിനാൽ സാങ്കേതികേതര ആളുകളായ ക്ലയന്റുകൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും ഇത് വളരെ ലളിതമായ മോഡലിംഗ് സാങ്കേതികതയാണ് മങ്ങിക്കാൻ പ്രയാസമാണ് വേരിയബിൾ സവിശേഷതകൾ ക്രീപ് ചെയ്യും മറു ഭാഗത്ത് ഫംഗ്ഷൻ പോയിന്റുകൾ വിപുലമായ പരിശീലനം ആവശ്യമാണ് അനുഭവപരിചയം കൃത്യതയില്ലായ്മയ്ക്ക് കാരണമായേക്കാമെന്ന് കണക്കുകൂട്ടാൻ വളരെയധികം അധ്വാനിക്കുന്നതായി കാണാൻ കഴിയും നിങ്ങൾ തികച്ചും അനുഭവപരിചയമില്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കണക്കുകൂട്ടിയ ഫംഗ്ഷൻ പോയിന്റുകൾ ഇത് കൃത്യതയില്ലാത്ത ഫംഗ്ഷൻ പോയിന്റുകൾക്ക് കാരണമായേക്കാം ഫയൽ കൃത്രിമത്വത്തിനും ഇടപാടുകൾക്കും ഭാരം വഹിക്കുന്നു ഒറ്റ വ്യക്തി അവതരിപ്പിച്ചാൽ പിശകുകൾ ഉണ്ടാകാം അതിനാൽ ഒന്നിലധികം റേറ്ററുകൾ നിർദ്ദേശിക്കുന്നു ഇത് കണക്കാക്കാൻ ഒരാൾക്ക് മാത്രം നൽകുന്നത് നിങ്ങൾ ക്രമീകരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവരുടെ പിശകുകൾ അവതരിപ്പിക്കപ്പെടാം ഇവ ആപ്ലിക്കേഷനുകൾ റേറ്റുചെയ്യുന്നതിന് നിങ്ങൾ ഒന്നിലധികം റേറ്ററുകൾ ഇടണം അവർക്ക് വ്യത്യസ്ത ഭാരം കണ്ടെത്താൻ കഴിയും അതിനാൽ ഒന്നിലധികം റേറ്ററുകൾ ആവശ്യമാണ് ഫംഗ്ഷൻ പോയിന്റിലെ ഒരു പ്രധാന പ്രശ്നമായി ഇത് കണക്കാക്കുന്നില്ല അത് ഒരു ഫംഗ്ഷന്റെ അൽഗോരിതം സങ്കീർണ്ണതയെ പരിഗണിക്കുന്നില്ല എന്നതാണ് ചില ഫംഗ്ഷനുകൾ ഉണ്ടെങ്കിൽ ഓരോ ഫംഗ്ഷനും സാഹചര്യ൦ കൈകാര്യം ചെയ്യുന്നുവെന്ന് ഇത് റേറ്റുചെയ്യുന്നുവെന്ന് നിങ്ങൾക്കറിയാമെങ്കിലും ചില ഫംഗ്ഷനുകൾ കൂടുതൽ സങ്കീർണ്ണമാണെങ്കിൽ നിങ്ങൾ കൂടുതൽ പരിശ്രമിക്കേണ്ടതുണ്ട് ചില ഫംഗ്ഷനുകൾ ഫോർവേഡ് ഫംഗ്ഷനുകളാണ് അവർക്ക് കുറഞ്ഞ പരിശ്രമമോ കുറഞ്ഞ സമയമോ മാത്രമേ ആവശ്യമുള്ളൂ ഇത് പ്രവർത്തനത്തിന്റെ അൽഗോരിതം സങ്കീർണ്ണത പരിഗണിക്കുന്നില്ല എല്ലാ പ്രവർത്തനങ്ങളും സമാനമായി ആവർത്തിക്കുന്നു ഫംഗ്ഷൻ പോയിന്റ് മെട്രിക് ഒരു പ്രധാന പോരായ്മ നേരിടുന്നുവെന്ന് ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം ഒരു ഫംഗ്ഷന്റെ വലുപ്പം അതിൽ നിന്ന് സ്വതന്ത്രമായി കണക്കാക്കുന്നത് സങ്കീർണ്ണതയാണ് അത് ശരിയല്ല ഫംഗ്ഷനുകളുടെ സങ്കീർണ്ണത വ്യത്യസ്തമാണ് ഈ പ്രശ്നം മറികടക്കുന്നതിന് ഫംഗ്ഷൻ പോയിന്റ് മെട്രിക്കിലേക്കുള്ള ഒരു വിപുലീകരണം ഫീച്ചർ പോയിന്റ് മെട്രിക് എന്നറിയപ്പെടുന്നു ഈ സവിശേഷത പോയിന്റ് മെട്രിക് കണക്കിലെടുക്കുകയും അധിക പാരാമീറ്റർ അൽഗോരിതം സങ്കീർണ്ണത എന്നറിയപ്പെടുന്ന ഒരു അധിക പാരാമീറ്ററിനെ പരിഗണിക്കുകയും ചെയ്യുന്നു ഈ പാരാമീറ്റർ അൽഗോരിതം സങ്കീർണ്ണത സവിശേഷത പോയിന്റ് മെട്രിക് ഉപയോഗിച്ച് കണക്കാക്കിയ വലുപ്പം ഉറപ്പാക്കുന്നു ഇത് ഇനിപ്പറയുന്ന വസ്തുത പ്രതിഫലിപ്പിക്കുന്നു ഒരു ഫംഗ്ഷന്റെ സങ്കീർണ്ണത ഉയർന്നതാണെന്ന വസ്തുത വികസിപ്പിക്കുന്നതിന് ആവശ്യമായ ശ്രമം വർദ്ധിച്ചാൽ എന്തുചെയ്യും അവ പ്രവർത്തനത്തിന്റെ സങ്കീർണ്ണത വളരെ ഉയർന്നതാണെങ്കിൽ അത് വികസിപ്പിക്കുന്നതിന് നിങ്ങൾ കൂടുതൽ ശ്രമിക്കേണ്ടതുണ്ട് ഒരു ഫംഗ്ഷന്റെ സങ്കീർണ്ണത ഒരു ചെറിയ ജിയുഐ തരത്തിലുള്ള ഒരു ഫംഗ്ഷൻ പോലെ വളരെ കുറവാണെങ്കിൽ അതിന് അവശേഷിക്കുന്ന കുറഞ്ഞ പരിശ്രമം ആവശ്യമാണ് ലളിതമായ ഒരു ഫംഗ്ഷനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിന് വലിയ വലുപ്പം ഉണ്ടായിരിക്കണം ഫംഗ്ഷന് ഉയർന്ന സങ്കീർണ്ണത ഉള്ളത് ലളിതമായ ഒരു ഫംഗ്ഷനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ വലുപ്പം ഉണ്ടായിരിക്കണം ഇതിന് വലിയ ഫംഗ്ഷൻ പോയിന്റ് ഉണ്ടായിരിക്കണം അതിനാൽ ലളിതമായ ഒരു ഫംഗ്ഷനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിന് വലിയ വലുപ്പം ഉണ്ടായിരിക്കണം അവസാനമായി എന്താണ് ബന്ധം അല്ലെങ്കിൽ എങ്ങനെയാണ് ഫംഗ്ഷൻ പോയിന്റുകൾ അല്ലെങ്കിൽ SLOC തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ പോയിന്റ് എങ്ങനെ SLOC ലേക്ക് പരിവർത്തനം ചെയ്യാം വ്യത്യസ്ത പ്രോഗ്രാമിംഗ് ഭാഷകൾക്കായി ഈ പരിവർത്തന നിരക്ക് സി ഭാഷയെപ്പോലെ വ്യത്യസ്തമാണ് ഒരു ഫംഗ്ഷൻ പൊയന്റിൽ 104 SLOC ഉണ്ട് അതുപോലെ തന്നെ സി പ്ലസിനും ഫംഗ്ഷൻ പോയിന്റിനായുള്ള SLOC 53 ഉം ആണ് ഇത് സി യുടെ കാര്യത്തിൽ ഏറ്റവും ഉയർന്നതാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കൂടാതെ എച്ച്ടിഎംഎൽ വിഷ്വൽ ബേസിക് എന്നിവയുടെ കാര്യത്തിൽ ഇത് ഏറ്റവും താഴ്ന്നതാണെന്ന് നമുക്ക് കാണാൻ കഴിയും നിങ്ങളുടെ എസ്റ്റിമേറ്റ് എങ്ങനെ കൂടുതൽ കൃത്യമാക്കാം കൃത്യമായ വലുപ്പം എങ്ങനെ കണക്കാക്കാം ഇവിടെ നിങ്ങൾ അധികമായി എടുക്കേണ്ടത് അത് അപകടസാധ്യത ഘടകങ്ങളാണ് കാരണം മുമ്പത്തെ കാര്യങ്ങളിൽ അപകടസാധ്യത ഘടകങ്ങളെ അവഗണിച്ചു അതിനാൽ വലുപ്പം കണക്കാക്കുന്നത് കൂടുതൽ കൃത്യമാക്കുന്നതിന് നിങ്ങൾ അപകടസാധ്യത ഘടകങ്ങൾ എടുക്കുകയും തുടർന്ന് ഗുണിക്കുകയും വേണം നിങ്ങൾ ആവശ്യകത എടുത്ത് പ്രോജക്റ്റ് വലുപ്പം കണക്കാക്കുകയും പ്രോജക്റ്റ് സങ്കീർണ്ണത ക്രമീകരണ ഘടകങ്ങളുമായി ഗുണിക്കുകയും തുടർന്ന് അപകടസാധ്യത ഘടകങ്ങളുമായി ഗുണിക്കുകയും ചെയ്യും അതിനാൽ ഫംഗ്ഷൻ പോയിന്റ് വിശകലനം പ്രോജക്റ്റ് വലുപ്പം പ്രോജക്റ്റ് സങ്കീർണ്ണത ക്രമീകരണം എന്നിവയിൽ എവിടെയാണെന്ന് ഇതിനകം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ക്രമീകരിക്കാത്ത ഫംഗ്ഷൻ പോയിന്റുകൾ എന്ന് പറയാൻ കഴിയും ഇത് ഗുണിച്ചാൽ സങ്കീർണ്ണമായ ഘടകങ്ങളാണ് കുറച്ച് മൂല്യം നേടാൻ കഴിയുന്നത് അത് അപകടസാധ്യത ഘടകത്താൽ ഗുണിക്കും ഈ രണ്ട് ഘടകങ്ങൾ ഫംഗ്ഷൻ പോയിന്റ് വിശകലനത്തിൽ നിന്ന് ലഭിക്കും തുടർന്ന് നിർവചനത്തിൽ നിന്നും പ്രോജക്റ്റ് പൂർത്തീകരണ ക്രമീകരണവും അവ ആശ്രയിച്ചിരിക്കുന്ന അപകടസാധ്യത ഘടകങ്ങളും ഈ രണ്ട് ഘടകങ്ങൾക്ക് കീഴിൽ ലഭിക്കും അവസാനമായി ക്രമീകരിക്കേണ്ട സാഹചര്യം നിങ്ങൾക്ക് ഇവയെല്ലാം ഉപയോഗിക്കാമെങ്കിൽ ഗുണനം എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് പരിശ്രമത്തിന്റെ വില എന്താണെന്ന് കണക്കാക്കാനും ഷെഡ്യൂളിംഗ് നടത്താനും കഴിയും അവസാനമായി ഒബ്ജക്റ്റ് പോയിന്റുകളെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് പറയാം ഒബ്ജക്റ്റ് പോയിന്റുകളെ ആശയക്കുഴപ്പത്തിലാക്കരുത് അവയ്ക്ക് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗുമായി ഒരു ബന്ധവുമില്ല ഇവിടെ ഒബ്ജക്റ്റ് പോയിന്റുകളുടെ എണ്ണം മാത്രമേ കണക്കാക്കൂ മൂന്ന് ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ഒബ്ജക്റ്റ് പോയിന്റുകളുടെ എണ്ണം കണക്കാക്കുന്നു ആദ്യം അവ പ്രദർശിപ്പിക്കുന്ന പ്രത്യേക സ്ക്രീനുകളുടെ എണ്ണം തുടർന്ന് നിർമ്മിച്ച റിപ്പോർട്ടുകളുടെ എണ്ണവും കോഡിലുള്ള മൊഡ്യൂളുകളുടെ എണ്ണവും ചില ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒബ്ജക്റ്റ് പോയിന്റുകൾ കണ്ടെത്താൻ കഴിയും ഈ ഒബ്ജക്റ്റ് പോയിന്റുകൾ സാധാരണയായി ഇവയാണ് അവ സാധാരണയായി കണക്കാക്കാൻ ലളിതമാണ് മാത്രമല്ല അവ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസുകൾ കണക്കിലെടുക്കുകയും ചെയ്യുന്നു ഒബ്ജക്റ്റ് പോയിന്റുകളുടെ അടിസ്ഥാനമാണ് ഇത് അവസാനമായി ആൽബ്രെക്റ്റ് ഐഎഫ്പിയുജി ഫംഗ്ഷൻ പോയിന്റുകളിൽ Albrecht IFPUG function point രണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചതായി കണ്ടു തുടർന്ന് സൈമൺസ് മാർക്ക് II ഫംഗ്ഷൻ പോയിന്റുകളും കോസ്മിക് ഫംഗ്ഷൻ പോയിന്റുകളും ചർച്ചചെയ്തു ഇത് എത്ര കോസ്മിക് പോയിന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കണ്ടു ഐഎസ്ഒ മാനദണ്ഡങ്ങളും ഫീച്ചർ പോയിന്റിന്റെ ആശയം എന്താണെന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് കാരണം ഫംഗ്ഷൻ പോയിന്റിന് ഒരു പ്രധാന പോരായ്മ ഉണ്ടെന്ന് കണ്ടു രണ്ട് വ്യത്യസ്ത ഫംഗ്ഷനുകൾ ഉണ്ടെങ്കിൽ അത് അൽഗോരിതം സങ്കീർണ്ണത കണക്കിലെടുക്കുന്നില്ല ഇത് അവരെ തുല്യമായി കണക്കാക്കുന്നു എന്നാൽ വാസ്തവത്തിൽ അവിടെയുള്ള രണ്ട് ഫംഗ്ഷനുകൾ ഒന്ന് വളരെ സങ്കീർണ്ണവും മറ്റൊന്ന് കുറഞ്ഞ സങ്കീർണ്ണവുമാകാം അതിനാൽ ഏതാണ് കൂടുതൽ സങ്കീർണ്ണമായത് അവ കൂടുതൽ പരിശ്രമിക്കേണ്ടതുണ്ട് ഏതാണ് കുറവ് സങ്കീർണ്ണമായത് അവ കുറച്ച് പരിശ്രമം നടത്തേണ്ടതുണ്ട് ഇവയെന്താണ് സങ്കീർണ്ണത എന്ന് ഫംഗ്ഷൻ പോയിന്റുകൾ കണക്കിലെടുക്കുന്നില്ല അതിനാലാണ് ഈ സങ്കീർണ്ണത പരിഗണിക്കുന്നതിനായി ഫംഗ്ഷൻ പോയിന്റ് നീട്ടിയത് ഇതിന് അൽഗോരിതം സങ്കീർണ്ണത എന്ന് വിളിക്കുന്ന മറ്റൊരു പാരാമീറ്റർ ഉണ്ട് ഈ അൽഗോരിതം സങ്കീർണ്ണത കണക്കിലെടുക്കുമ്പോൾ ഒരു ഫംഗ്ഷന്റെ സങ്കീർണ്ണത കൂടുതലാണെങ്കിൽ കൂടുതൽ ശ്രമം നടത്തണം ഒരു ഫംഗ്ഷന്റെ സങ്കീർണ്ണത കുറവാണെങ്കിൽ കുറഞ്ഞ പരിശ്രമം നൽകേണ്ടതുണ്ട് ഒരു ഫംഗ്ഷന്റെ സങ്കീർണ്ണത കൂടുതലാണെങ്കിൽ വ്യക്തമായും അതിൽ അത് ഉൽപാദിപ്പിക്കണം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഫംഗ്ഷൻ പോയിൻറുകൾ ഉണ്ടായിരിക്കണം അതിനാൽ വലുപ്പം കൂടുതൽ ആയിരിക്കും ഫംഗ്ഷന് സങ്കീർണ്ണത കുറവാണെങ്കിൽ അതിന് ഫംഗ്ഷൻ പോയിന്റുകൾ കുറവായിരിക്കണം അതിനാൽ വലുപ്പം കുറയും ഒബ്ജക്റ്റിനെക്കുറിച്ച് കുറച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് അവ കണക്കിൽ എടുക്കുന്ന പോയിന്റുകൾ അല്ലെങ്കിൽ മൂന്ന് ഘടകങ്ങൾ അല്ലെങ്കിൽ മൂന്ന് പാരാമീറ്ററുകൾ ഒബ്ജക്റ്റ് പോയിന്റുകൾ മൂന്നായി എടുക്കുന്നു ഇത് മൂന്ന് പാരാമീറ്ററുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അത് ചർച്ച ചെയ്യുകയും ചെയ്തു ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണിവ അതിനാൽ അടുത്ത ക്ലാസ്സിൽ ആ കൊക്കോ മോഡലും കാണും ഈ പുസ്തകങ്ങളിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ടുണ്ട് പ്രധാനമായും ഈ വിഷയങ്ങൾക്കായി രണ്ട് പുസ്തകങ്ങളും ഉപയോഗിച്ചു ഇനി ഇവിടെ നമുക്ക് നിർത്താം വളരെയധികം നന്ദി